ഓർത്തോഗ്രാഫിക് പ്രൊജക്ഷനുകൾ II എല്ലാവർക്കും നമസ്ക്കാരം എഞ്ചിനീയറിംഗ് ഡ്രോയിംഗ് കമ്പ്യൂട്ടർ ഗ്രാഫിക്സ് എന്നിവയെക്കുറിച്ചുള്ള നമ്മളുടെ എൻപിടിഎൽ ഓൺലൈൻ സർട്ടിഫിക്കേഷൻ കോഴ്സുകളിലേക്ക് സ്വാഗതം നമ്മൾ ഇപ്പോഴുള്ളത് ഓർത്തോഗ്രാഫിക് പ്രൊജക്ഷനുകളെ കുറിച്ചുള്ള മൊഡ്യൂൾ നമ്പർ 31 ലാണ് മുമ്പത്തെ ക്ലാസുകളിൽ എഞ്ചിനീയറിംഗ് ഡ്രോയിംഗുകളിലേക്കുള്ള മറ്റുള്ളവയും നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു മൊഡ്യൂൾ 3 ൽ നമ്മൾ ഓർത്തോഗ്രാഫിക് പ്രൊജക്ഷനുകൾ I ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു പ്ലെയിനുകളെക്കുറിച്ചും വിശദീകരിക്കും 88 പ്രൊജക്ഷൻ II ൽ ഒരു രേഖ എങ്ങനെ പ്രൊജക്റ്റ് ചെയ്യുന്നത് എങ്ങനെയാണ് ഇതെല്ലാമാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇന്നത്തെ പ്രഭാഷണത്തിൽ നമുക്ക് പ്രധാനമായും രേഖാ പ്രൊജക്ഷനുകൾ എന്ന ഒരു രേഖയെ പ്രതിനിധീകരിക്കുന്നുവെങ്കിൽ നീളം മാത്രമല്ല ആവശ്യമായത് ലംബ തലം തിരശ്ചീന തലം എന്നിവയിൽ ഒരു രേഖയുടെ പ്രൊജക്ഷൻ എങ്ങനെ വരയ്ക്കാം എന്നതാണ് ഇന്നത്തെ പ്രഭാഷണത്തിന്റെ ലക്ഷ്യം തത്വത്തിൽ വരികളുടെ ഈ പ്രൊജക്ഷന് നിലവിലുണ്ട് ആദ്യത്തേത് തിരശ്ചീന തലം ലംബ തലം എന്നിവയ്ക്ക് ലംബമായി ഒരു ലംബ രേഖ രണ്ടാമത്തേത് ലംബ തലം തിരശ്ചീന തലം എന്നിവയ്ക്ക് സമാന്തരമായി ഒരു രേഖ മൂന്നാമത്തേത് ലംബ തലത്തിന് ലംബമായി ഒരു രേഖ ലംബ തലം തിരശ്ചീന തലം എന്നിവയ്ക്ക് ലംബമായി ഒരു രേഖ നാലാമത്തേത് തിരശ്ചീന തലത്തിലേക്ക് ചെരിഞ്ഞ ഒരു രേഖ പക്ഷേ ഇത് ലംബ തലത്തിന് സമാന്തരമാണ് അഞ്ചാമത്തെ രേഖ ഒരു പ്രത്യേക കേസാണ് തിരശ്ചീന തലം ലംബ തലം എന്നിവയിലേക്ക് ചരിഞ്ഞ ഒരു രേഖ അതായത് തിരശ്ചീന തലം ലംബ തലം എന്നിവയിലേക്ക് അത് വ്യത്യസ്ത കോണുകൾ നിർമ്മിക്കുന്നു ഇത്തരത്തിലുള്ള രേഖകൾ ഉണ്ടെങ്കിൽ അവ എങ്ങനെ ഈ ലംബ തലം തിരശ്ചീന തലം എന്നിവയിലേക്ക് പ്രൊജക്റ്റ് ബന്ധിപ്പിക്കാനാകുന്ന ഒരു സ്ഥാനത്തായിരിക്കും നമ്മൾ നമുക്ക് അവയെ പടിപടിയായി നോക്കാം ആദ്യത്തെ ചോദ്യം ഇതാണ് ലംബ തലം തിരശ്ചീന തലം എന്നിവയ്ക്ക് ലംബമായിട്ടാണ് ഒരു ലംബ രേഖ അങ്ങനെയാണെങ്കിൽ ആ രേഖ എങ്ങനെ നിർമ്മിക്കാം നമുക്ക് ഇത് നോക്കാം ത്രിമാന ലോകത്ത് നമ്മുടെ ലംബ തലം ഇതാണ് തിരശ്ചീന തലം ഇതാണ് ഇത് ലംബ തലം തിരശ്ചീന തലം എന്നിവയ്ക്ക് ലംബമായിട്ടുള്ള ഒരു രേഖയാണ് നമുക്ക് അത് നോക്കാം ഇപ്പോൾ നമ്മൾ അതിലേക്കു നോക്കുകയാണെങ്കിൽ ഇതാണ് ലംബ രേഖ ഇപ്പോൾ എ ചെയ്യുന്ന രീതി

എ ചെയ്യപ്പെടുന്നു ഈ ദ്വിമാന കാര്യത്തിലാണ് നമ്മൾ കാണിക്കുന്നതെങ്കിൽ ഇതാണ് ലംബ തലം ഇത് X Y അച്ചുതണ്ട് നമുക്ക് അവിടെ ഒരു ചെയ്യപ്പെടും അതിനാൽ രേഖയ്ക്കുള്ള ഉത്തരം നമ്മൾ പ്രൊജക്റ്റ് ചെയ്യുമ്പോൾ എ തലത്തിലേക്ക് പോകുന്നു ഈ പ്രത്യേക കേസിൽ ആയിരിക്കും ഇത് യഥാർത്ഥ നീളമല്ല 12 രണ്ടാമത്തെ കേസ് എന്ന രേഖയാണ് ഇത് തിരശ്ചീന തലത്തിനും ലംബ തലത്തിനും സമാന്തരമാണ് അങ്ങനെയാണെങ്കിൽ ലംബ തലത്തിലും തിരശ്ചീന തലത്തിലും നമുക്ക് നിരീക്ഷിക്കാനാകുന്ന നീളമെന്താണ് നമുക്ക് അത് നോക്കാം

എ ആയിരിക്കുന്നു അതിനാൽ നമ്മൾ ഈ തിരശ്ചീന തലം 90 ഡിഗ്രി യഥാർത്ഥ നീളം ലഭിക്കും തിരശ്ചീന തലത്തിലേക്ക് ചെരിഞ്ഞും ലംബ തലത്തിന് സമാന്തരമായും ഒരു രേഖ വരുന്ന മൂന്നാമത്തെ കേസ് ലഭിക്കുന്നു അവിടെ യഥാർത്ഥ നീളം ഉടൻ തന്നെ നമുക്ക് കാണാനാകും നമ്മൾ ഈ എ ബി അത് യഥാർത്ഥ നീളത്തേക്കാൾ ചെറുതായിരിക്കും അതിനാൽ ഇത് യഥാർത്ഥ നീളമാണ് ഇത് പ്രൊജക്റ്റ് ചെയ്യപ്പെട്ട പ്രത്യക്ഷ നീളവും ലംബ തലത്തിലേക്ക് ചെരിഞ്ഞതും തിരശ്ചീന തലത്തിന് സമാന്തരവുമായ രേഖ വരുന്ന മറ്റൊരു കേസ് നമുക്ക് നോക്കാം രേഖ ലംബ തലത്തിലേക്ക് ചെരിഞ്ഞ് വരുന്ന രീതിയിലുള്ള ചിത്രം നിങ്ങൾക്ക് വരയ്ക്കാൻ കഴിയുമോ എന്നാൽ ഇത് തിരശ്ചീന തലത്തിന് സമാന്തരമാണ് അതിനർത്ഥം ഒന്നാമതായി ഒരു ലംബ തലം നിർമ്മിച്ച് അവിടെ നിന്ന് ഒരു തിരശ്ചീന തലം നിർമ്മിക്കുക ലംബ തലത്തിലേക്ക് ചെരിഞ്ഞും തിരശ്ചീന തലത്തിന് സമാന്തരമായുമാണ് രേഖ ഉണ്ടാവേണ്ടത് തിരശ്ചീന തലത്തിന് സമാന്തരമായി എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് തിരശ്ചീന തലത്തിൽ ഇതിനകം തന്നെ രേഖ പോലെയുള്ള എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ അതിനെ സമാന്തരമായി നീക്കണം പക്ഷേ അത് ലംബ തലവുമായി ഒരു ചെരിവ് കോൺ ഉണ്ടാക്കണം അതിനാൽ ഞാൻ ഇവ യോജിപ്പിക്കാൻ പോകുന്നുവെങ്കിൽ ഇതാണ് എ നോക്കാം അതിനാൽ ഈ രേഖയാണ് നമ്മൾ കാണുന്നത് ഈ രേഖ തിരശ്ചീന തലത്തിന് സമാന്തരമാണ് എന്നാൽ നിങ്ങൾ ഇത് ദീർഘിപ്പിക്കുകയാണെങ്കിൽ ഈ രേഖ അവിടെ പരസ്പരം ഛേദിക്കാം അത് ലംബ തലത്തിലേക്കു ചെരിഞ്ഞാണിരിക്കുന്നത് അത്തരം സന്ദർഭങ്ങളിൽ ലംബ തലത്തിലേക്കുള്ള ആ രേഖയുടെ പൂർണ്ണ വിവരങ്ങൾ നൽകുന്നു ഫസ്റ്റ് ക്വാഡ്രന്റിലെ ഷീറ്റുകളിലും കാണാനാകും ഒരുപക്ഷെ ഈ ചിത്രം നമുക്ക് അറിയാമെങ്കിൽ അതിനർത്ഥം ടോപ് വ്യൂവിൽ എന്ന രേഖയാണ് ലംബതലവുമായി ഒരു ചെരിവ് കോൺ ഉണ്ടാക്കുന്നത് എന്നാണ് അത് സൂചിപ്പിക്കുന്നത് ഇങ്ങനെയാണ് അത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരുപക്ഷെ ഈ ചിത്രം നമുക്ക് അറിയാമെങ്കിൽ അതിനർത്ഥം ടോപ് വ്യൂവിൽ എന്ന രേഖയാണ് ലംബതലവുമായി ഒരു ചെരിവ് കോൺ ഉണ്ടാക്കുന്നത് എന്നാണ് അത് സൂചിപ്പിക്കുന്നത് ഇങ്ങനെയാണ് അത് നമ്മൾ മനസ്സിലാക്കേണ്ടത് അതിനാൽ ടോപ് വ്യൂ നമ്മൾ ഇവിടെ പ്രതിനിധീകരിക്കുന്നു ഒരു രേഖ ലംബ തലം തിരശ്ചീന തലം എന്നിവയിലേക്ക് ചെരിഞ്ഞാണോ ഉള്ളത് എന്ന് നമുക്ക് നോക്കാം ആ പ്രശ്നം കൈകാര്യം ചെയ്യാൻ കൂടുതൽ ബുദ്ധിമുട്ടായിരിക്കും നിങ്ങൾക്ക് അതിനെക്കുറിച്ച് ചിന്തിക്കാമോ ഉദാഹരണങ്ങളിലൂടെ നമുക്ക് ഈ പ്രശ്നം നോക്കാം പക്ഷേ അത് ഊഹിക്കുന്നതിലൂടെ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് ഇത് ലംബ തലവും ഇത് തിരശ്ചീന തലവും ആണെങ്കിൽ രേഖ ലംബ തലം തിരശ്ചീന തലം എന്നിവയിലേക്ക് ചെരിഞ്ഞിരിക്കണം അതിനർത്ഥം അത് ചെരിഞ്ഞിരിക്കുന്നതാണെങ്കിൽ ആ വിധത്തിലുള്ള കാര്യം മനസ്സിലാക്കാൻ നമുക്ക് കഴിയും അതിനാൽ ഈ കോൺ ഒരു കോൺ ഫൈ ഉണ്ടാക്കാൻ പോകുന്നു എന്നാൽ ഇപ്പോൾ ഈ രേഖ പൂർണ്ണമായ വിവരമല്ല കാരണം ഇതിന് സമാന്തരമായിരിക്കാൻ കഴിയില്ല വീണ്ടും ഇതിന് തിരശ്ചീന തലവുമായി ഒരു ചെരിവ് കോൺ നിർമ്മിക്കേണ്ടതുണ്ട് അതിനർത്ഥം ഞാൻ ഇത് ഒരു തിരശ്ചീന തലത്തിലേക്ക് പ്രൊജക്റ്റ് ചെയ്യാൻ പോകുകയാണെങ്കിൽ അത് ഒരു കോൺ നിർമ്മിക്കേണ്ടതുണ്ട് നമുക്ക് ആ പ്രൊജക്ഷൻ എന്നത് കോൺ ആണ് ഇത് എയും എന്ന കോൺ സൃഷ്ടിക്കുന്ന രേഖയാണ് അതുപോലെ ഈ ചെരിഞ്ഞ രേഖയുടെ ഫ്രന്റ് വ്യൂവിൽ കൂടുതൽ വിശദാംശങ്ങൾ ഉദാഹരണങ്ങളിലൂടെ നമ്മൾ അടുത്ത ക്ലാസ്സിൽ പഠിക്കും